ഹലോ സുഹൃത്തുക്കളെ മുമ്പത്തെ പ്രഭാഷണത്തിൽ സോഫ്റ്റ് സ്കില്ലുകളുടെ ഘടകങ്ങളിലൊന്നായി ലിസണിംഗ് സ്കിൽസിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു നിങ്ങൾ എന്നെ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം ശ്രവണത്തിന്റെ ആവശ്യകതയിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നു നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ പിന്നെ എന്താണ് ഈ പ്രത്യേക തരം ശ്രവണം ഈ പ്രഭാഷണത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ശ്രവണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നു വ്യത്യസ്ത തരത്തിലുള്ള ശ്രവണം എങ്ങനെ സഹായിക്കുന്നു ഈ ലിസണിംഗ് സ്കിൽ നിങ്ങളെ സഹായിക്കുന്ന വിവിധ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ തുടക്കത്തിൽ 3 തരം ശ്രവിക്കൽ ഉണ്ടാകാം ആദ്യത്തേത് ഒരു കോമ്പറ്റീവ് ശ്രവണമാണ് ഇപ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ അത് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ കേൾക്കുമ്പോൾ നിങ്ങൾക്കും പോരാടാം അതുവഴി നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ നിങ്ങൾ പ്രതിഷേധത്തോടെ കേൾക്കുമ്പോൾ എന്തുസംഭവിക്കും ഒരു പ്രക്രിയ അനുഭവിക്കുന്നതിനനുസരിച്ച് 'പ്രതിഷേധം' എന്ന ഘടകം നിങ്ങളുടെ മനസ്സിൽ കൂടുതലായതിനാൽ നിങ്ങൾക്ക് ശരിയായി കേൾക്കാൻ കഴിയില്ല മറ്റൊന്ന് അറ്റെന്റിവ് ശ്രവണമാണ് നിങ്ങൾ ഓരോ വാക്കും ശ്രദ്ധിക്കുന്നു നിങ്ങൾ തുല്യ ശ്രദ്ധ ചെലുത്തുന്നു നിങ്ങൾ ഉടനീളം ശ്രദ്ധിക്കുന്നു എന്നാൽ നിങ്ങൾ ഉടനീളം ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്ക് വിശ്രമം നൽകും മൂന്നാമത്തേത് ഒരു റിഫ്ളക്റ്റീവ് ശ്രവണമാണ് അത് നമ്മുടെ ശ്രവണത്തിന്റെ എല്ലാ രൂപങ്ങളിലും ഏറ്റവും പ്രധാനമാണ് കാരണം ഈ ശ്രവണത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല വിശകലനം ചെയ്യുന്നു നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ വിശകലനം ചെയ്യുകയും ഇത്തരത്തിലുള്ള ശ്രവണം ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വയം അറിവുണ്ടാക്കുകയും ചെയ്യാം ഇതിനെ റിഫ്ലക്ടീവ് ലിസണിംഗ് എന്ന് വിളിക്കുന്നു ശ്രവിക്കുന്നതിനുള്ള മറ്റ് രൂപങ്ങളും ഉണ്ടാകാം ഞാൻ മിക്കപ്പോഴും പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളായ നമ്മളിൽ ഭൂരിഭാഗവും ക്ലാസ് മുറിയിലെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാൽ നിങ്ങൾ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലും വ്യത്യസ്ത പ്രശ്നങ്ങളിലും ഇവയെല്ലാം വ്യത്യസ്ത തരം ആളുകളെ ശ്രദ്ധിക്കണം അപ്പോൾ ശ്രവണം വ്യത്യാസപ്പെട്ടിരിക്കുന്നു കാരണം ഒരു മീറ്റിംഗ് ഉള്ളപ്പോൾ മീറ്റിംഗ് ഒരു ഉദ്ദേശ്യത്തോടെയാണ് വിളിക്കുന്നത് മീറ്റിംഗിൽ പങ്കെടുക്കാൻ നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ നയം പ്രഖ്യാപിക്കുന്നു ഒരു പുതിയ നിർദ്ദേശം ഓർഗനൈസേഷനുകളിൽ മുകളിലേക്കും താഴേക്കും ഉള്ള ആശയവിനിമയ പ്രവാഹങ്ങൾ നിങ്ങൾക്കറിയാം അതിനാൽ ചിലപ്പോൾ നല്ല അറിയിപ്പുകൾ യഥാർത്ഥത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് പ്രചരിക്കുന്നു അവ എല്ലായ്പ്പോഴും ലിഖിത രൂപത്തിൽ വരാനിടയില്ല നിർദ്ദേശങ്ങൾ ചിലപ്പോൾ വാക്കാലുള്ളതാകാം അവ വാമൊഴിയായി വരാം അതിനാൽ ചില കുറിപ്പുകൾ എടുക്കാൻ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തോടെ നിങ്ങളുടെ ബോസ് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ഇതിനെ ഉള്ളടക്ക ലിസണിംഗ് എന്ന് വിളിക്കുന്നു ഇവിടെ നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ പറയുന്നതെന്തും നിങ്ങൾ കേൾക്കും കാരണം അത് മറ്റ് ആളുകൾക്ക് പ്രചരിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിന് മറ്റ് ഔദ്യോഗിക ഉദ്ദേശ്യങ്ങൾ ഉണ്ടായിരിക്കണം അതിനാൽ ഇത് ഉള്ളടക്കത്തിന്റെ രൂപത്തിൽ വരുന്നു എമ്പതറ്റിക് ശ്രവണം മറ്റൊരു രൂപമാണ് ഇപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും സന്തുഷ്ടരല്ല ചിലപ്പോൾ നമ്മൾ ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകുന്നു നേതാക്കളെന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക പ്രശ്നം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കൂടി കണ്ടേക്കാം മാത്രമല്ല ആ വിവരം കൈമാറാൻ പോകുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ മുതലാളി തന്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ലെങ്കിലോ അവന്റെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ ഒരുപക്ഷേ അയാൾക്ക് നിരാശ തോന്നുന്നു ജീവനക്കാരന് അതൃപ്തി തോന്നിയേക്കാം നിങ്ങൾക്കറിയാമല്ലോ ഓർഗനൈസേഷനുകൾ ഒരു കുടുംബം പോലെയാണ് നമ്മൾ എല്ലാവരും കുടുംബാംഗങ്ങളാണ് മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പൊതുവായ പ്രതിസന്ധി മാത്രമല്ല പൊതുവായപ്രശ്നങ്ങൾ മാത്രമല്ല ഔദ്യോഗികമായവ മാത്രമല്ല ചിലപ്പോൾ നമുക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം നമ്മൾ സാധാരണയായി ഇവ മേലധികാരികളുമായോ പ്രിയപ്പെട്ടവരുമായോ അടുത്തുള്ളവരുമായോ പങ്കിടാൻ പോകുന്നു അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഭാരം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആശ്വാസം ലഭിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു ഇതിന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തോന്നുന്നിടത്ത് ഒരുതരം എമ്പതറ്റിക് ശ്രവിക്കൽ ആവശ്യമാണ് ഒപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ അവന്റെ ചിന്തകൾ പങ്കിടുക മാത്രമല്ല ചില സമയങ്ങളിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം നൽകുകയും ചെയ്യാം അത് അവനെ മയപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല അതേ സമയം തന്നെ അവനെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇതിനെ സഹാനുഭൂതി ശ്രവിക്കൽ എന്ന് വിളിക്കുന്നു പിന്നെ ഉള്ളത് അപ്പ്രീഷിയേറ്റീവ് ശ്രവണം ആണ് നിങ്ങൾ ഒരു കോൺഫറൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബന്ധം വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഉണ്ട് ഈ ദിവസങ്ങളിൽ മിക്ക ചെറുപ്പക്കാരും നൂതനമായ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു മാത്രമല്ല അവ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പുതിയ ആശയം നമുക്ക് വന്നാൽ ചുറ്റുമുള്ള ആശയവിനിമയ സൌകര്യങ്ങളുടെ സഹായത്തോടെയും മറ്റുള്ളവരുമായി പങ്കിടാം ഉദാഹരണത്തിന് ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾ കണ്ടെത്തി ഇത് ആളുകൾ കേൾക്കുക മാത്രമല്ല അവർ അഭിനന്ദിക്കുകയും വേണം ആരെങ്കിലും വളരെ നല്ല ഗായകനാണോ എന്ന് ആളുകൾ കണ്ടെത്തും അതുപോലെ തന്നെ ആരെങ്കിലും ഒരു പുതിയ നയം ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാൾ വിലമതിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അതിനായി നമുക്ക് ഒരുതരം അപ്പ്രീഷിയേറ്റീവ് ശ്രവണം ആവശ്യമാണ് ഇത് യഥാർത്ഥത്തിൽ സഹായിക്കുന്നു തുടർന്ന് നമുക്ക് അനലറ്റിക്കൽ ശ്രവണം ഉണ്ട് അവിടെ നിങ്ങൾ ഒരു വ്യക്തിയെ ശ്രദ്ധിക്കുകയും അത് കേട്ട ശേഷം നിങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു ഓർഗനൈസേഷനിൽ ഒരു പ്രതിസന്ധിയുണ്ടോ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ നിരവധി കക്ഷികളെ ബാധിത കക്ഷികൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു കക്ഷിയെ മാത്രം ശ്രദ്ധിച്ചാൽ സ്വാഭാവികമായും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല മാത്രമല്ല നിങ്ങൾ പക്ഷപാതപരമായിരിക്കാം അതിനാലാണ് നിങ്ങൾ ഒരു നേതാവെന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രണ്ട് പാർട്ടികളും പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ തർക്കമുണ്ടെന്ന് രണ്ട് ആളുകൾ തമ്മിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ട് ഈ സംഘർഷം പരിഹരിക്കപ്പെടുന്നതിന് ആരെങ്കിലും അതിൽ കാര്യമായ പങ്ക് വഹിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധിക്ക് ഒരു വഴിയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ രണ്ട് പാർട്ടികളും ശ്രദ്ധിച്ച് വിശകലനം ചെയ്യുന്നു അതിനു പുറമെ നിങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് അവിടെ നിങ്ങൾ ഒരു നല്ല ശ്രോതാവായിരിക്കണം നിങ്ങൾ ഒരു കക്ഷിയെ ക്ഷണിക്കുമ്പോൾ ഒരു കക്ഷിയോ മറ്റേ കക്ഷിയോ പറഞ്ഞ കാര്യങ്ങളുടെ ഗുണദോഷങ്ങൾ നിങ്ങൾ നോക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ശ്രവണരീതികളെല്ലാം പ്രധാനമാണ് ഒരു നിർദ്ദിഷ്ട ഉദ്ദേശ്യത്തിനായി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകതരം ശ്രവണം ആവശ്യമാണ് ആരെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് കരുതുക നിങ്ങൾ വിശകലനം ആരംഭിക്കുകയാണെങ്കിലും അഭിനന്ദിക്കപ്പെടാത്ത ഒരു പരിഹാരത്തിലേക്ക് നിങ്ങൾ വരില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പ്രഭാഷകനെന്ന നിലയിലും ശ്രോതാവെന്ന നിലയിലും നിങ്ങൾ വ്യത്യസ്ത വേഷങ്ങൾ അണിയണം കാരണം നിങ്ങളുടെ ജീവനക്കാർ നിങ്ങളുടെ കുടുംബാംഗങ്ങളാണ് മാത്രമല്ല നിങ്ങൾ പറയുന്നതെന്തും ശ്രദ്ധിക്കുകയും വേണം അതിനാൽ ഇവ ശ്രവിക്കുന്നതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് പക്ഷേ ചിലപ്പോൾ നമ്മൾ മുൻവിധിയോടെ ശ്രദ്ധിക്കാൻ തുടങ്ങും മുൻ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മിൽ മിക്കവർക്കും സംഭവിക്കുന്നത് അതാണ് നമുക്ക് താൽപ്പര്യമുള്ളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാനുള്ള ശരിയായ ഒരു മാർഗ്ഗം ഉണ്ടെന്നു നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് മുൻവിധികളാണ് നിങ്ങൾ മുൻവിധിയോടെയുള്ളപ്പോൾ നമ്മുടെ ഏറ്റവും ആഴത്തിൽ വേരൂന്നിയ മുൻവിധികളെ എതിർക്കുന്ന എന്തെങ്കിലും നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഈ സാഹചര്യവും നിരീക്ഷണവും നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ബോസ് പറയുകയാണ് മിസ്റ്റർ എക്സ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിർദേശിച്ച കാര്യം അത് വളരെ നേരത്തെയുള്ള ഒരു പ്രോജക്റ്റാണ് മാത്രമല്ല യഥാർത്ഥത്തിൽ സാഹചര്യത്തിന്റെ വിവിധ ഗുണങ്ങളും ദോഷങ്ങളും കണക്കിൽ എടുക്കാതെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഊതി പെരുപ്പിച്ചതാണ് ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ഈ പ്രോജക്റ്റ് നൽകിയ വ്യക്തിയെ ഒന്നുകിൽ ബോസ് മുൻവിധിയോടെയോ അല്ലെങ്കിൽ പ്രോജക്റ്റ് നൽകിയ വ്യക്തി ബോസിനെ മുൻവിധിയോടെയോ കാണും അതിനാൽ നമ്മുടെ ഏറ്റവും ആഴത്തിൽ വേരൂന്നിയ മുൻവിധിയെ എതിർക്കുന്ന ഒന്ന് ഉദാഹരണത്തിന് ചർമ്മത്തിന്റെ നിറത്തെ ആരെങ്കിലും വിമർശിക്കുന്നു ആരെങ്കിലും നിങ്ങളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഉപദേശം ധാരണ ബോധ്യത്തിന്റെ രൂപത്തിൽ ആണെങ്കിലും കാരണം നമ്മിൽ പലർക്കും ചില സംവഹനങ്ങൾ ഉണ്ട് ചില കർക്കശമായ ആശയങ്ങൾ മോഡുകൾ സംസ്കാരങ്ങൾ കോംപ്ലക്സുകൾ എന്നിവ നമ്മുടെ തലച്ചോറിനെ നയിക്കുന്നത് നല്ല ശ്രവണത്തിലേക്ക് സഹായിക്കുന്ന ദിശയിൽ ആവണം എന്നില്ല ആദ്യ സന്ദർഭത്തിൽ തന്നെ ആരോ പറയുന്നു ഇത് എനിക്ക് വളരെ തിടുക്കത്തിലുള്ള ഒരു വാദം ആയി തോന്നുന്നു സ്വാഭാവികമായും നിങ്ങൾ അയാളെ കേൾക്കില്ല അല്ലെങ്കിൽ അയാൾ നിങ്ങളെ കേൾക്കില്ല അതിനാൽ ഇത് കേൾക്കുന്നതിനെ ബാധിക്കും പ്രോജക്റ്റിൽ നിങ്ങൾ വളരെ യുക്തിസഹമായ ഒരു സംഭവത്തെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട് എന്നാൽ അതേ സമയം ആ വ്യക്തി പക്ഷപാതപരവും നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയാത്തതുമായതിനാൽ മുഴുവൻ പ്രോജക്ടും നിങ്ങൾക്ക് അർത്ഥമില്ലാത്ത ഒന്നായി തോന്നുന്നു നമ്മൾ കേൾക്കുന്നതിനെ എതിർക്കാൻ മാനസികമായി പദ്ധതിയിടുന്നു ചിലപ്പോൾ നമ്മളെ എതിർക്കുന്നുവെങ്കിൽ നമ്മൾ അതേ സമയം തന്നെ എതിർക്കാൻ തുടങ്ങുന്നു നിങ്ങൾ എതിർത്തുതുടങ്ങിയാൽ പറഞ്ഞ കാര്യങ്ങളെപ്പോലും അല്ലെങ്കിൽ സംസാരിക്കുന്നയാളെ ലജ്ജിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ ആകും ചോദ്യങ്ങൾ തുടക്കത്തിൽ ആരെങ്കിലും പ്രതിപക്ഷത്തിന്റെ രൂപത്തിലാണെന്ന് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ തന്നെ ലജ്ജിപ്പിക്കുന്നതാകാം അല്ലെങ്കിൽ ഒരുപക്ഷേ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്കും മറ്റും തിരിയുന്നു ഇത്തരത്തിലുള്ള ശ്രവിക്കൽ മുൻവിധിയോടെയുള്ള ശ്രവണമാണ് അതിൽ നിന്ന് ഒന്നും പുറത്തുവരാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ബുദ്ധിമുട്ടുള്ളതും ഉപകാരപ്രദവും അല്ല ഇപ്പോൾ ഒരു നല്ല ശ്രോതാവാകാൻ നാം സ്വയം തയ്യാറാകേണ്ട വ്യത്യസ്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് എങ്ങനെ പ്രയോജനം ചെയ്യും ആദ്യത്തേത് സംഭാഷണമാണ് നമ്മളെല്ലാവരും നല്ല സംഭാഷണവാദികളല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചേക്കാം കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉള്ള കേൾക്കാനുള്ള കഴിവില്ലായ്മയാണ് ഒരു നല്ല സംഭാഷണം സ്പീക്കറും ശ്രോതാവും യഥാർത്ഥത്തിൽ ഒരു തരം സിംഫണിയിലേക്ക് വരുന്ന ഒരവസ്ഥ മാത്രമാണ് അവർ ഒരുതരം കരാറിലെത്തുന്നു അതിനാൽ മറ്റ് കക്ഷികളെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഒരു നല്ല സംഭാഷണം നടക്കൂ നിങ്ങൾ പലപ്പോഴും കണ്ടെത്തും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു നിങ്ങൾ അവനെ ശരിയായി ശ്രദ്ധിക്കുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം സംസാരം തടസ്സപ്പെടുന്നു സംസാരം നിർത്തുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നാമെല്ലാവരും ഒരു സംഭാഷണം നടത്താൻ നല്ലവരല്ല അതുകൊണ്ടാണ് മിക്ക അവസരങ്ങളിലും ട്രെയിൻ യാത്ര നമുക്ക് വളരെ ബോറടിപ്പിക്കുന്നതായി തോന്നുന്നത് കാരണം നമ്മൾ ഒരു നല്ല പ്രഭാഷകനോ നല്ല സംഭാഷണകാരനോ അല്ല അതിനാൽ ഒരു നല്ല സംഭാഷണത്തിന് ശ്രവിക്കുന്നതിന് നല്ല ക്ഷമ ആവശ്യമാണ് ഗ്രൂപ്പ് ചർച്ചകളിലൂടെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ മിക്ക ഓർഗനൈസേഷനുകളിലും ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തും ഉദാഹരണത്തിന് പറയുക വളരെയധികം അപേക്ഷകൾ വന്നിട്ടുണ്ട് ധാരാളം സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നാൽ അവയിൽ ചിലത് അദ്ദേഹം പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ അദ്ദേഹം ചെയ്യുന്നത് ഗ്രൂപ്പ് ചർച്ചയുടെ സഹായം സ്വീകരിക്കുന്നു എന്നതാണ് ഗ്രൂപ്പ് ചർച്ചയുടെ അനിവാര്യ ഘടകമാണ് ശ്രദ്ധിക്കുന്നത് നല്ല ശ്രോതാവല്ലാത്ത ഒരു വ്യക്തിക്ക് ഗ്രൂപ്പ് ചർച്ചയിൽ മികവ് പുലർത്താൻ കഴിയില്ല നമ്മുടെ ഗ്രൂപ്പ് ചർച്ചയിൽ ആർക്കെങ്കിലും സംഭാവന നൽകാൻ ഒന്നുമില്ലെങ്കിൽ എന്നാൽ കേൾക്കാൻ അദ്ദേഹത്തിന് ക്ഷമയുണ്ടെങ്കിൽ അയാൾക്ക് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ എതിർക്കുകയോ അല്ലെങ്കിൽ തുടരുകയാണെന്ന് കരുതുകയോ ചെയ്താൽ അദ്ദേഹം ഗ്രൂപ്പിൽ ഉണ്ടെന്ന് പല അവസരങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഗ്രൂപ്പ് ചർച്ചയിൽ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഗ്രൂപ്പ് ചർച്ച തുടരാൻ നമുക്ക് കഴിയില്ല അതിനാൽ ഗ്രൂപ്പ് ചർച്ചയിൽ ശ്രദ്ധിക്കുന്നത് പ്രധാനമാണ് ഒരു പ്രധാന കാര്യം നിങ്ങളുടെ ശ്രവണശക്തിയുടെ സഹായത്തോടെയാണ് നിങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഒരു നേതാവായി പുറത്തുവരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഗ്രൂപ്പ് ചർച്ചയിലെ ഓരോ വ്യക്തിക്കും അവസരം നൽകണം ഗ്രൂപ്പ് ചർച്ചയിലെ ഓരോ വ്യക്തിക്കും സംസാരിക്കണം നിഷ്ക്രിയനായ ഒരു വ്യക്തി പോലും ഒരു ആശയവുമില്ലാത്തതും ആശയത്തിൽ കുറവുള്ളതുമായ ഒരു വ്യക്തി പോലും മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പിന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ വരുന്നു ഒരു സംഘടനാ പ്രവർത്തനത്തിലും പങ്കെടുക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും അയാൾക്ക് തോന്നുന്നതുകൊണ്ട് മാത്രം അയാൾക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ടിവരും പക്ഷേ ഒരു പ്രവർത്തനത്തിൻറെ വിജയം ഒരു സംഭവത്തിന്റെ വിജയത്തിന് ശരിയായ ഏകോപനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഫലമുണ്ടാകൂ നമ്മൾ പരസ്പരം ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഈ ഏകോപനം ഉയരുകയുള്ളൂ ഓർമ്മിക്കുക വ്യത്യസ്ത അവസരങ്ങളിൽ നിങ്ങൾ കേൾക്കേണ്ടിവരും മാത്രമല്ല കേട്ടതിനുശേഷം നിങ്ങൾ ചിലപ്പോൾ ഒരു നടപടി എടുക്കേണ്ടിവരും താൻ ശ്രദ്ധിക്കുന്നുവെന്ന് ലളിതമായി പറയുന്ന ഒരു വ്യക്തിയുടെ ആവശ്യമില്ല എന്നാൽ അവൻ എന്താണ് കേട്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരു സങ്കടത്തിലാണ് അതിനാൽ അത്തരം കേൾക്കൽ സ്വാഗതാർഹമല്ല മാത്രമല്ല നിങ്ങൾ ഒരു ഇടപാട് നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ പ്രധാനമാണ് നിങ്ങൾ ഇടപാട് നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നല്ല ശ്രോതാവായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ചർച്ചകൾ നടത്താം നിങ്ങൾക്കറിയാമോ നമുക്ക് ചർച്ചയെക്കുറിച്ച് വിശദമായി പിന്നീട് സംസാരിക്കാം ചർച്ചയിൽ ശ്രവിക്കൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും അതിനാൽ കേൾക്കൽ വളരെ പ്രധാനമാണ് മാത്രമല്ല എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നതിന്റെ മറ്റൊരു പ്രധാന ഭാഗം അഭിമുഖങ്ങൾക്കിടയിൽ നമ്മൾ നിരീക്ഷിക്കുന്നു വളരെ ഉത്സാഹി ആയ ഒരു വ്യക്തി മൊത്തത്തിൽ ചോദ്യം കേൾക്കുന്നില്ലെങ്കിൽ അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുന്ന ചോദ്യം അതിന് തെറ്റായി ഉത്തരം നൽകേണ്ട അവസ്ഥയിലാണ് അദ്ദേഹം അഭിമുഖം നടത്തുന്നയാൾ തന്റെ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ എന്ന നിലയിൽ നിങ്ങൾക്കും അറിയാം ഉത്തരം നിങ്ങൾക്കറിയാവുന്നതിനാൽ നിങ്ങൾ ചാടിക്കയറി ഉത്തരം നൽകും പക്ഷേ ചോദ്യത്തിൻറെ മറ്റേ ഭാഗം വ്യത്യസ്തം ആകാംഎന്ന് നിങ്ങൾക്കറിയാമോ അതിനാൽ ശരിയായ ശ്രവണകല നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം നിങ്ങൾ ശരിക്കും ഒരു തെറ്റ് ചെയ്തേക്കാം നിങ്ങൾ ശ്രദ്ധിച്ചതെന്തെന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അഭിമുഖം നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ശ്രദ്ധിക്കുകയും തുടർന്ന് കണ്ടുമുട്ടുകയും ചെയ്യുന്നത് വളരെ സാധാരണ ഘടകമാണ് വിജയകരമായ മീറ്റിംഗുകളിൽ ഭൂരിഭാഗവും ശ്രവിക്കുന്ന പ്രവർത്തനം കാരണം അവ വിജയിക്കുന്നു ആളുകൾ ഉടനീളം ശ്രദ്ധിക്കുകയും അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു കേൾക്കുമ്പോൾ മന്ത്രിക്കുന്നതിനോ സമാന്തര സംഭാഷണത്തിനോ നമ്മൾ പ്രാധാന്യം നൽകരുത് എന്നതും പ്രധാനമാണ് ചില സമയങ്ങളിൽ ഗ്രൂപ്പ് ചർച്ചകളിലും മീറ്റിംഗുകളിലും സംഭാഷണം ആവശ്യമില്ലെന്ന് സമാന്തര സംഭാഷണം ആരംഭിക്കുന്നവരുമുണ്ടെന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അത് ശ്രവിക്കാനുള്ള അന്തരീക്ഷത്തെ നശിപ്പിക്കുകയും മീറ്റിംഗിന്റെ അജണ്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുകയും ചെയ്യും അത്തരം സാഹചര്യങ്ങളിൽ കേൾക്കുന്നതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തേത് നിങ്ങൾക്കറിയാവുന്ന ബാഹ്യ ഘടകങ്ങളാണ് ഞാൻ ഈ മുറിയിൽ നിന്ന് ഒരു പ്രഭാഷണം നടത്തുകയാണ് ഇത് വളരെ സൌഹാർദ്ദപരമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ശബ്ദവും എന്നെ ശല്യപ്പെടുത്തുന്നില്ല വേദിയും വളരെ അടുപ്പമുള്ളതാണ് ഞാൻ ഇവിടെ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എന്നെ ആരും തടസ്സപ്പെടുത്തുന്നില്ല ഞാൻ ഇവിടെ ഒരുതരം ഇടം നിലനിർത്തുന്നു അല്ലെങ്കിൽ എനിക്ക് നന്നായി എന്റെ പങ്ക് വഹിക്കാൻ കഴിയും കൂടാതെ സമയം കൂടി കണക്കിലെടുക്കുന്നു അങ്ങനെ എനിക്ക് എന്റെ പ്രസംഗം നന്നായി അവതരിപ്പിക്കാൻ കഴിയും ഒപ്പം ഞാൻ മതിയായ ഇടവും നൽകി എനിക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അദൃശ്യമായിട്ടാണെങ്കിലും ഞാൻ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നു നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് എനിക്ക് കാണാൻ കഴിയില്ല എന്നിട്ടും നിങ്ങൾ എന്റെ പ്രിയ സുഹൃത്തിനെ ശ്രദ്ധിക്കുന്നു അതിനാൽ അതാണ് യഥാർത്ഥത്തിൽ സൌന്ദര്യം അതാണ് കേൾക്കുന്നതിന്റെ മാന്ത്രികതയും കരിഷ്മയും ഈ ഫലപ്രദമായ ശ്രവണം ശബ്ദമുണ്ടാകരുത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ആളുകൾ പലപ്പോഴും പരാതിപ്പെടുന്നതായി നിങ്ങൾ കണ്ടെത്തും എന്റെ തൊട്ടടുത്ത മുറിയിൽ വളരെയധികം ശബ്ദമുണ്ട് എനിക്ക് ഒന്നും കേൾക്കാനാകില്ല എന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രാന്തപ്രദേശത്ത് സ്ഥിതിചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് അവ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് സ്ഥിതിചെയ്യുന്നത് കാരണം വിദ്യാഭ്യാസ പ്രവർത്തനം ശ്രവിക്കുന്ന സഹായത്തോടെ നടക്കുന്നു ബാഹ്യ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ലാത്ത ഇടങ്ങൾ പങ്കിടുന്നതിന്റെ സഹായത്തോടെ അതിനാൽ എല്ലാ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് സമാധാനം നിലനിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ശ്രവിക്കൽ നടക്കുന്നത് ബഹളമില്ലാത്ത വേദികൾ അതിനാൽ വളരെ പ്രധാനമാണ് ഒരു മീറ്റിംഗ് തീരുമാനിക്കുമ്പോഴെല്ലാം അത് നടക്കുന്ന സ്ഥലം മനോഹരമാണെന്ന് മാത്രമല്ല എല്ലാത്തരം ആകർഷണങ്ങളും ഉള്ളതായും തിരക്കിൽ നിന്ന് സ്വതന്ത്രമാണെന്നും കാണാം സമയവും വളരെ പ്രധാനമാണ് വിചിത്രമായ സമയങ്ങളിൽ നമുക്ക് എല്ലാം കേൾക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരു മീറ്റിംഗ് നിശ്ചയിക്കുമ്പോൾ മീറ്റിംഗ് സമയം തീരുമാനിക്കുന്നത് ആർക്കും പ്രശ്നങ്ങളില്ലാത്ത സമയം എല്ലാവർക്കും അനുയോജ്യമായ ഒരു സമയം അതെ പോലെ സംസ്കാരവും വളരെ പ്രധാനമാണ് നിരവധി സംസ്കാരങ്ങളിൽ ആളുകൾ ഇത് ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും എല്ലാവരും കേൾക്കണം എല്ലാവരും സംസാരിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് ശ്രവണം ബാഹ്യ കാരണങ്ങളാൽ ബാധിക്കപ്പെടുന്നത് ഈ ഘടകങ്ങൾ കാരണം പ്രധാനമായും ബഹളം നിങ്ങൾ വളരെ ഗൌരവമേറിയ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബഹളം നിങ്ങളെ തടസ്സപ്പെടുത്താം അതിനാലാണ് വേദിയും സമയവും തിരഞ്ഞെടുക്കുമ്പോൾ അവ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ആന്തരിക ഘടകങ്ങളും ഉണ്ട് കേൾക്കൽ ബുദ്ധിമുട്ടാകുമ്പോൾ എന്താണ് ഈ ആന്തരിക ഘടകങ്ങൾ മനസ്സിന്റെ അവസ്ഥ ആശയവിനിമയത്തെക്കുറിച്ചുള്ള മുമ്പത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു മീറ്റിംഗിൽ പോലും മുഴുകിയിരിക്കുകയാണെന്ന് കരുതുക ചിലപ്പോൾ ഞങ്ങളുടെ പ്രതികരണങ്ങൾ മറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അതു മനസ്സിന്റെ അവസ്ഥ കാരണം ആകാം ഒരുപക്ഷേ നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം ഒരുപക്ഷേ നമ്മൾ സംഭാവന നൽകേണ്ട അവസ്ഥയിലായിരിക്കില്ല ഒരുപക്ഷേ എന്തെങ്കിലും പറയാൻ നമ്മൾ ഒരു വൈകാരികാവസ്ഥയിലായിരിക്കില്ല അല്ലെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചതുകൊണ്ട് പറയുന്നത് കേൾക്കാത്തതാണ് ഞാൻ ഇതിനകം തന്നെ എന്റെ മനസ്സ് അടച്ചിരിക്കുന്നു അതിനാൽ മനസ്സിന്റെ അവസ്ഥയും വളരെ പ്രധാനമാണ് ഫലപ്രദമായി ശ്രവിക്കുന്നതിൽ ഇത് ഗുരുതരമായ പങ്ക് വഹിക്കുന്നു ഈഗോ ഇത് ശരിക്കും ഭേദമാക്കാനാവാത്ത ഒരു രോഗമാണ് നിങ്ങൾക്ക് നമ്മിൽ മിക്കവർക്കും അറിയാം എന്റെ സഹപ്രവർത്തകന് എന്നെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനം ലഭിച്ചാൽ അദ്ദേഹം എന്നെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് നമ്മൾ കരുതുന്നു എനിക്ക് ഒരു അഹംഭാവമുള്ളതിനാൽ ഞാൻ അവനെ ശ്രദ്ധിക്കരുത് അതിനാൽ നിങ്ങൾ കേൾക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഈഗോ പ്രശ്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത് ശ്രവണത്തെ ബാധിക്കും പിന്നെ ഭാഷ ഒരു വ്യക്തി ഇംഗ്ലീഷ് സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഷ പറയുകയോ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്നുള്ള റഫറൻസുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് അറിയാത്ത വാക്കുകൾ പറയുകയോ ചെയ്യുന്നത് കേൾവിയെ ബാധിക്കുന്നു കേൾക്കൽ നടക്കില്ല സമാന സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയും മറ്റുള്ളവർ പ്രതികരിക്കുന്ന രീതിയും വ്യത്യസ്ത ധാരണകളാണ് അതിനാൽ നമുക്ക് വ്യത്യസ്ത ധാരണകൾ ഉള്ളപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ശ്രദ്ധിക്കുന്നത് ബാഹ്യ ഘടകങ്ങളാൽ മാത്രമല്ല ആന്തരിക ഘടകങ്ങളാലും ബാധിക്കപ്പെടുന്നു നിങ്ങൾക്കറിയാമോ നമ്മൾ ഈഗോയില് നിന്നും മുക്തരാകുന്നതുവരെ നമ്മൾ ക്ലോൺ ചിന്തകളിൽ നിന്നും കർക്കശമായ വിഭാഗങ്ങളായി മാറുന്നതിൽ നിന്നും അവ്യക്തതകളിൽ നിന്നും സ്വതന്ത്രരാകുന്ന വരെ സ്വാഭാവികമായും ശ്രവിക്കാൻ കഴിയില്ല നാം ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും കേൾക്കുന്നത് അതിന്റെ യഥാർത്ഥ ആശയത്തില് ഉൾകൊള്ളാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എങ്കിൽ നമ്മൾ സ്പീക്കറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കണം സ്പീക്കറെ ജഡ്ജ് ചെയ്യുന്ന ചില ആളുകളുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സ്പീക്കറെ അവന്റെ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിധിക്കരുത് പകരം അദ്ദേഹത്തിന്റെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കണം അവന്റെ ചിന്തകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ സ്പീക്കറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രം അതിനാൽ ആദ്യം സ്പീക്കറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവനെ ശ്രദ്ധിക്കുക തികച്ചും സ്വാഭാവികവും അടിച്ചേൽപ്പിക്കാത്തതുമായ രീതിയിൽ അവനെ നോക്കുക നിങ്ങൾ ഒരു നോട്ടം നൽകുമ്പോഴും ഒറ്റനോട്ടത്തിൽ ഒരു സ്വാഗത സിഗ്നൽ ഉണ്ടായിരിക്കണം നിങ്ങൾ അവിടെ പഠിക്കാൻ ചില വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി എത്തിയെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഈ സ്പീക്കറെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു നല്ല ശ്രോതാവായിരിക്കാനും കാര്യങ്ങൾ ഓർമ്മിക്കാനും നിങ്ങൾക്കറിയാമെന്നതിനാൽ നമ്മളിൽ പലരും ഒരു മീറ്റിംഗിൽ പേനയും പേപ്പറും കൊണ്ട് പോകുന്നു അതിനാൽ നിങ്ങൾ അവിടെ പോകുമ്പോൾ സ്പീക്കർ പറയുന്നതിന്റെ ചില പ്രധാന ഭാഗങ്ങൾ നിങ്ങൾക്ക് എഴുതി എടുക്കാൻ കഴിയുമെന്ന് കാണുക എന്നാൽ നിങ്ങൾ എഴുതുമ്പോൾ ഓർക്കുക അതിനിടയിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഈ രണ്ട് പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളും സ്പീക്കറുടെ കാഴ്ചപ്പാടുകൾ സംഗ്രഹിക്കുന്നു അവ കാണിക്കുന്നതിലൂടെയല്ല നിങ്ങളുടെ മനസ്സിൽ സംഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ടെങ്കിൽ അത് സ്പീക്കറെ തടസ്സപ്പെടുത്തുന്നതിനും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പറയുന്നതിനോ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനോ ഉള്ള ഒരു നല്ല മാർഗമല്ലെന്ന് ഓർക്കുക പകരം സംഭാഷണത്തിന് ശേഷം അല്ലെങ്കിൽ പ്രഭാഷണം അവസാനിച്ച ശേഷം നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് കുറിപ്പുകൾ തയ്യാറാക്കാം നിങ്ങൾക്ക് വളരെ മര്യാദയോടെ മറുപടികൾ തേടാം പ്രസക്തമായ പോയിന്റുകൾ രേഖപ്പെടുത്തുക തുടർന്ന് നിങ്ങളുടെ അറിവുമായി പ്രശ്നം ബന്ധിപ്പിക്കുക നിങ്ങൾ ഇത് വളരെ സത്യസന്ധമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും എന്തെങ്കിലും പഠിച്ചതായി നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ ശരിയായ ശ്രവണം ഉറപ്പുവരുത്തണം കാരണം മിക്ക അവസരങ്ങളിലും നമ്മൾ ഈ പ്രഭാഷകനെ മുൻവിധിയോടെ കാണുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതിനുശേഷം ആരെങ്കിലും ഓ അതൊരു നല്ല പ്രഭാഷണമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പശ്ചാത്തപിക്കാൻ തോന്നുന്നു കാരണം നിങ്ങൾ സ്പീക്കറെ ആദ്യം മാത്രം വിധിക്കുകയും നിങ്ങൾക്ക് അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ രണ്ട് പ്രഭാഷണങ്ങളിലും കേൾക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം സംസാരിച്ചു ഫലപ്രദമായ കേൾക്കുന്നതിന് ചില തന്ത്രങ്ങളും ചില നുറുങ് വിദ്യകളും എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഉദാരമായിരിക്കുക നിങ്ങൾ ഒരു പ്രഭാഷണം നടത്താൻ പോകുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷയമുണ്ട് എന്നാൽ വളരെ അനുഭവ സമ്പത്തുള്ള ഒരു സ്പീക്കർ നിങ്ങൾക്ക് ചില പുതിയ ആശയങ്ങൾ നൽകുമെന്ന് എല്ലായ്പ്പോഴും ചിന്തിക്കുക പങ്കിടാൻ നൂതനമായ ചില ആശയങ്ങൾ സ്പീക്കറിലുണ്ടാകും നിങ്ങൾ തുറന്ന മനസ്സോടെ പോകുമ്പോൾ മാത്രമേ അത് ഉൾകൊള്ളാൻ സാധ്യമാകൂ നമ്മിൽ ഭൂരിഭാഗവും മുൻവിധിയോടെയുള്ള മനസ്സോടെ പക്ഷപാതപരമായ മനസ്സോടെ കേൾക്കാൻ പോകുന്നു അതുകൊണ്ടാണ് നമുക്ക് കേൾക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത് മാത്രമല്ല സ്പീക്കറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തുറന്ന മനസ്സ് നിലനിർത്തുകയും ചെയ്യുമ്പോൾ ദയവായി നിങ്ങൾക്ക് സംഭാഷണത്തിൽ വളരെയധികം താല്പര്യമുണ്ടെന്ന് കാണിക്കുക നിങ്ങൾ നിങ്ങളുടെ താൽപ്പര്യം കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അതിനെ ഒരു അൺവെർബൽ രീതിയിൽ കാണിക്കുന്നു മാത്രമല്ല ഇത് ഭാവനയെ ഉത്തേജിപ്പിക്കുകയും സ്പീക്കറുടെ ചിന്താ പ്രക്രിയയെ ഉണർത്തുകയും ചെയ്യും ഒരിക്കലും പ്രഭാഷകനെ വിധിക്കരുത് അത് ഒഴിവാക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനാത്മക ചിന്തകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുതരം വിമർശനാത്മക വിശകലനം നടക്കുന്നുണ്ടെങ്കിൽ ദയവായി തുടരുക നിങ്ങളുടെ വിമർശനാത്മക ചിന്ത സജീവമാക്കുക പക്ഷേ ഇത് നിങ്ങൾക്കായി സൂക്ഷിക്കുക അത് തുറന്നുകാട്ടരുത് അല്ലാത്തപക്ഷം അത് മറ്റുള്ളവരുടെ ശ്രവണത്തെ ബാധിക്കും നിങ്ങളുടെ അത്ര അറിവില്ലാത്ത മറ്റ് ആളുകളുമുണ്ട് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിമർശനാത്മക ചിന്ത നിങ്ങൾ സ്വയം സൂക്ഷിക്കുക എന്നതാണ് എന്നാൽ നിങ്ങൾ എഴുതി എടുക്കുമ്പോൾ പോയിന്റുകൾ കുറിക്കുക ഈ സംഭാഷണം പൂർത്തിയായിക്കഴിഞ്ഞാൽ ഈ പ്രസംഗം അവസാനിച്ചുകഴിഞ്ഞാൽ ഇവയെല്ലാം ചെയ്യാൻ കഴിയും മാത്രമല്ല നമ്മിൽ ചിലർക്ക് വളരെ മോശം ശീലമുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു വിമർശനാത്മക ചിന്ത നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ പെട്ടെന്ന് അത് മറ്റൊരാളുമായി അല്ലെങ്കിൽ നിങ്ങളുടെ അരികിൽ ഇരിക്കുന്ന മറ്റൊരാളുമായി പങ്കിടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഇത് ശരിക്കും മറ്റൊരു രീതിയിൽ എടുക്കാം ഇത് ശല്യപ്പെടുത്തുന്നതുപോലെയാണ് അതിനാൽ ദയവായി സ്പീക്കറെ വിധിക്കരുത് നിങ്ങളുടെ വിമർശനാത്മക ചിന്ത വിശാലമായ സമാന്തര സംഭാഷണങ്ങളിൽ കാണിക്കരുത് സ്പീക്കറെ തടസ്സപ്പെടുത്തരുത് ചില സമയങ്ങളിൽ സ്പീക്കർ മെതഡ് ആശയവിനിമയത്തെക്കുറിച്ചുള്ള എന്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം തന്റെ ആശയങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുക്കി നിർത്തുകയല്ല പകരം വാക്കുകളിലൂടെയോ അല്ലാതെയോ പ്രകടിപ്പിക്കുന്നു അതിനാൽ സ്പീക്കർ ഉപയോഗിക്കുന്ന നോൺവെർബലുകളുടെ ഭാഷ മനസിലാക്കാൻ നിങ്ങൾ ജാഗ്രത പാലിക്കണം കാരണം ഈ പ്രഭാഷകൻ തന്റെ ശരീരചലനത്തിന്റെ സഹായത്തോടെയും അൺവെർബൽ സൂചകങ്ങളുടെ സഹായത്തോടെയും അവൻ പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വാക്ക് സ്ഥാപിക്കുന്ന രീതിയിലൂടെ ഒരു ചോദ്യം ഉന്നയിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ സമയ വിടവുകളും ഉപയോഗിക്കണമെന്ന് ഓർമ്മിക്കുക ഈ സമയ വിടവുകൾ ഇടവിളകളായി ദൃശ്യമാകും നിങ്ങൾക്ക് ഈ ഇടവേള ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കാനും ഏകോപിപ്പിക്കാനും കഴിയും ഓർക്കുക എല്ലാത്തരം സ്പീക്കറുകളും അതായത് നിശബ്ദതയും നിർത്തലുകളും ഉപയോഗിക്കാത്ത കുറച്ച് സ്പീക്കറുകൾ മാത്രമേ ഉണ്ടാകൂ അതിനാൽ നിശബ്ദമെന്ന് കരുതപ്പെടുന്നതിന്റെ അർത്ഥവും സ്പീക്കർ നൽകിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിൽ സ്ഥിതിചെയ്യുന്ന താൽക്കാലിക വിരാമങ്ങളും അനാവരണം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ജാഗരൂകരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും സ്പീക്കറുടെ ചിന്താ പ്രക്രിയ നിങ്ങളെ ഉണർത്തുകയോ സജീവമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ കൃത്യമായ കുറിപ്പുകൾ എഴുതിയെടുക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ കേൾക്കുന്നത് ഒരുതരം പഠനാനുഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നും പ്രിയ സുഹൃത്തുക്കളേ ഞാൻ പറയുന്നത് പോലെ കേൾക്കാനുള്ള ശീലം വളർത്തിയെടുക്കുക കേൾക്കുന്നതിന് വേണ്ടി മാത്രമല്ല പഠിക്കാൻ വേണ്ടി കേൾക്കുക പഠിച്ചത് മറക്കാൻ വേണ്ടി കേൾക്കുക കാരണം ചില സമയങ്ങളിൽ നമ്മൾ മുമ്പ് പഠിച്ചതെന്തും ഒരു പുതിയ അറിവ് അല്ലെങ്കിൽ വിവരങ്ങൾ അറിയുമ്പോൾ മറക്കേണ്ടി വരാം പ്രശസ്ത നോവലിസ്റ്റ് ഏണസ്റ്റ് ഹെമിംഗ്വേ പറയുന്നത് "എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ് ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നതിൽ നിന്ന് ഞാൻ വളരെയധികം പഠിച്ചു" തുടർന്ന് അദ്ദേഹം പറയുന്ന അവസാന വരികൾ "മിക്ക ആളുകളും ഒരിക്കലും കേൾക്കുന്നില്ല" എന്നാൽ ഞാൻ തികച്ചും പ്രത്യാശയുള്ളവനാണ് നിങ്ങൾ എല്ലാവരും വളരെ നല്ല ശ്രോതാക്കളാണെന്നും പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ആസ്വദിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല നിങ്ങൾ പഠിക്കാനും സ്വയം ജ്ഞാനികളാകാനും വേണ്ടി കേൾക്കും കേൾക്കുക പഠിക്കുക കേവലം കേൾക്കുന്നത് പ്രധാനമല്ല എന്നാൽ നിങ്ങൾ കേൾക്കുന്നതെന്തും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ശ്രവിക്കുന്നതിലേക്ക് മാറ്റാനോ ശ്രമിക്കേണ്ടതുണ്ട് എന്നതും പ്രധാനമാണ് കാരണം എല്ലാ ശ്രവണവും നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ പുതിയ അറിവ് നൽകുന്നു വരും ദിവസങ്ങളിൽ നിങ്ങളെ ഒരു വിജയകരമായ വ്യക്തിയാക്കുന്നു നിങ്ങൾ ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി